ഇതുവരെ നമ്മൾ പഠിച്ചത് ഡിസി സർക്യൂട്ട് നമ്മൾ നോക്കിയിരുന്നു ഇനി നമുക്ക് മാഗ്നെറ്റിക് സർക്യൂട്ട് ആണുള്ളത് അപ്പോൾ നമുക്ക് അത് നോക്കാം അപ്പോൾ ഒരു മാഗ്നെറ്റിക് സർക്യൂട്ട് എന്നത് യഥാർത്ഥത്തിൽ ഒരു മാഗ്നെറ്റിന്റെ എന്ന് വിളിക്കുന്നത് ഇതേ പ്രദേശത്തു തന്നെയാണ് മാഗ്നെറ്റിക് ബലത്തിന് സ്വാധീനം ഉണ്ടാക്കാൻ ആവുന്നത് അല്ലെങ്കിൽ മാഗ്നെറ്റിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ കറങ്ങുന്ന എല്ലാ ഇലക്ട്രിക്കൽ മെഷീനുകളുടെയും ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണങ്ങളുടെയും ട്രാൻസ്ഫോർമർ പോലുള്ള സ്റ്റാറ്റിക് ഉപകരണങ്ങളുടെയും അവശ്യ ഘടകമാണ് വൈദ്യുതകാന്തിക സംവിധാനം അതുകൊണ്ടാണ് ഇതിനെ യഥാർത്ഥത്തിൽ കാന്തികവലയം എന്ന് വിളിക്കുന്നത് അടുത്തത് വൈദ്യുത പ്രവാഹത്തിന്റെ കാന്തിക ഫലങ്ങളാണ് ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ H നെ കാന്തികവലയത്തിന്റെ തീവ്രത അല്ലെങ്കിൽ കാന്തികശക്തി എന്ന് വിളിക്കുന്നുവെന്ന് കരുതുക ആദ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതൊരു വൃത്താകൃതിയിലുള്ള കണ്ടക്ടർ എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കുക ഈ ഫ്ലക്സ് ലൈൻ എന്നാൽ നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക കറന്റ് പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ഈ പേപ്പറിലേക്ക് പ്രവേശിക്കുന്നു ഇത് വൈദ്യുതധാരയുടെ ദിശയാണെങ്കിൽ എന്റെ തള്ളവിരൽ വൈദ്യുതധാരയുടെ ദിശയാണെങ്കിൽ ഫ്ലക്സ് ലൈൻ ഈ വിരൽ ചുരുട്ടുന്നതായിരിക്കും അതിനാൽ ഇതാണ് വൈദ്യുതധാരയുടെ ദിശ ഈ ഫ്ലക്സ് അർത്ഥമാക്കുന്നത് കറന്റ് എന്നത് പേപ്പറിൽ അല്ലെങ്കിൽ തലത്തിൽ പ്രവേശിക്കുന്നു എന്നാണ് ഇതാണ് ഫ്ലക്സിന്റെ ദിശ അതിനാൽ ഈ കറന്റ് പ്രതലത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് ഞാൻ പറയുന്നുവെങ്കിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിലെ പേപ്പറിലേക്ക് അത് പ്രവേശിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിൽ ഇത് ഫ്ലക്സ് ദിശയാണ് അതായത് അത് ക്ലോക്ക് വൈസ് അതിനാൽ യഥാർത്ഥത്തിൽ കാന്തികവലയ തീവ്രത അല്ലെങ്കിൽ ചിലപ്പോൾ കാന്തികശക്തി എന്ന് വിളിക്കുന്നു ഈ r റേഡിയസാണ് ആണ് അവിടെ സ്ഥായിയായി തുടരുകയും ചെയ്യുന്നു അതിനാൽ ഇതാണ് കറന്റിനെ ചുറ്റിപ്പറ്റിയുള്ള ഫ്ലക്സ് അതിനാൽ ഒരു നീണ്ട നേരായ കണ്ടക്ടർ കറന്റ് വഹിച്ചുകൊണ്ട് ഈ പ്രതലത്തിൽ ഒരു കാന്തികവലയം സ്ഥാപിക്കാൻ കാരണമാകുന്നു വൈദ്യുതധാരയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അടഞ്ഞ പാതയാണ് ഫ്ലക്സ് ലൈൻ അതായത് കാന്തികശക്തി അതിനോട് സ്പഷ്ടമാണ് ഇതാണ് H ഇത് കാന്തിക തീവ്രത അല്ലെങ്കിൽ കാന്തികശക്തിയാണ് അതിനാൽ ഞാൻ തംബ് റൂളിൽ പറഞ്ഞ ഫ്ലക്സിന്റെ ദിശ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം ഞാൻ പറഞ്ഞ് തന്നതിലൂടെ ഒന്നൂടെ പോകുക അതേ കാര്യം ആണ് ഇവിടെയുള്ളതെല്ലാം ഇനി H എന്നത് കറന്റ് ഉൾക്കൊള്ളുന്ന ഫ്ലക്സ് ലൈനിന്റെ ഓരോ യൂണിറ്റ് നീളത്തിലേയും കോസേറ്റിവ് കറന്റ് ആയിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് കോസേറ്റിവ് കറന്റ് എന്താണെന്നുള്ളതിലേക്ക് പിന്നീട് വരാം ഈ കേസിൽ സിമ്മെട്രി കാരണം H ഓരോ ഫ്ലക്സ് ലൈനിലും ഏകതാനമാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലക്സ് ലൈൻ ഏകാഗ്രവും ഏകതാനവുമാണെന്ന് വിളിക്കുന്നു അതിനാൽ H യഥാർത്ഥത്തിൽ ഓരോ ഫ്ലക്സിലും ടാൻജെൻഷ്യലും ഏകതാനവുമാണ് അതിനാൽ സിമ്മെട്രി കാരണം ഈ സാഹചര്യത്തിൽ ഓരോ ഫ്ലക്സ് ലൈനുകളിലും H ഏകതാനമാണ് ആരം r ലെ ഏതൊരു ഫ്ലക്സ് ലൈനിനും H ഒരു ഫ്ലക്സ് ലൈനിനൊപ്പം ടാൻജൻഷ്യൽ ആയതിനാൽ H I 2 π r ആമ്പിയർ പെർ മീറ്ററാണ് ഇത് ഒരു ഫ്ലക്സ് ലൈനിന്റെ ആരം ആണ് ഇത് ഡയഗ്രത്തിൽ r ആണ് ഇത് ഏകതാനമാണ് ഇത് ഒരു വൃത്താകൃതിയാണ് അതിനാൽ ചുറ്റളവ് 2 π r ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ നീളം l 2 π r ആണ് അതിനാൽ H I 2 π r ആമ്പിയർ പെർ മീറ്റർ ആയിരിക്കും ഇതാണ് ആമ്പിയറിന്റെ സിദ്ധാന്തം അതിനാൽ ഞാൻ ഇത് വ്യക്തമാക്കട്ടെ അതിനാൽ യഥാർത്ഥത്തിൽ H I 2 π r ആമ്പിയർ പെർ മീറ്റർ എന്നതാണ് ആമ്പിയറിന്റെ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എല്ലായ്പ്പോഴും സ്ഥായിയായിരിക്കും ഈ കോൺസ്റ്റന്റ് μ0 ആണെന്ന് നിർവചിച്ചിരിക്കുന്നു അതിനെ ഫ്രീ സ്പേസിന്റെ പെർമേയബിലിറ്റി എന്ന് വിളിക്കുന്നു കൂടാതെ μ0 ഒന്നുകിൽ 4π10 7 വെബർ പെർ ആമ്പിയർ മീറ്ററോ അല്ലെങ്കിൽ ഹെൻറി പെർ മീറ്ററോ ആണ് B ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ഇത് μ0 H ആണ് അതുപോലെ ഇതിന്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല ആണ് അതിനാൽ ശൂന്യമായ ഇടം ഒഴികെയുള്ള എല്ലാ മാധ്യമങ്ങൾക്കും യഥാർത്ഥത്തിൽ B μ0 μr H ഇവിടെ μr എന്നത് റിലേറ്റീവ് പെര്മെബ്യലിറ്റി ഇല്ലാത്ത അളവാണ് കാരണം ന്യൂമറേറ്ററും ഫ്ലക്സ് ഡെൻസിറ്റി ഡിനോമിനേറ്ററും ഫ്ലക്സ് ഡെൻസിറ്റി അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഡൈമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റാണ് അതിനാൽ മെറ്റീരിയലിലെ ഫ്ലക്സ് സാന്ദ്രതയും കൂടെ ശൂന്യതയിലെ ഫ്ലക്സ് സാന്ദ്രതയും അതിനാൽ കാന്തിക വസ്തുക്കളുടെ തരത്തിനനുസരിച്ച് r വ്യത്യാസപ്പെടുന്നു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫ്ലക്സ് സാന്ദ്രതയുടെ അനുപാതമായതിനാൽ ഇതിന് യൂണിറ്റില്ല അത് ഡൈമെൻഷൻ ഇല്ലാത്തതാണ് കൂടാതെ B μ H എന്നും എഴുതാം 0 എന്നതിനുപകരം ഏതെങ്കിലും മെറ്റീരിയലിൽ μH എഴുതാൻ കഴിയും അതിനാൽ ഇവിടെ μ μ0 μr അതിനെ അബ്സോല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നു അതിനാൽ μ μ0 μr ആണ് ഈ പ്രദേശത്തിലൂടെ കടന്നുപോകുന്ന ഫ്ലക്സ് എന്നത് ഫ്ലക്സ് യൂണിഫോം ഡെൻസിറ്റി ∅ B A ആണ് B എന്നത് ഫ്ലക്സ് സാന്ദ്രതയാണ് അത് വെബർ പെർ മീറ്റർ സ്ക്വയറും A എന്നത് പ്രദേശമാണെന്നും അത് മീറ്റർ സ്ക്വയർ ആണെന്നും കരുതുക അപ്പോൾ ∅ B A അത് വെബർ ആണ് അതിനാൽ ഇത് ലളിതമാണ് ഇവയെല്ലാം B μ H μ μ0 μr and ∅ B A എന്നിവയാണ് ഇനിയുള്ളത് മാഗ്നറ്റിക് സർക്യൂട്ടുകൾ ആയി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ ഇത് ഒരു വൃത്താകൃതിയിലുള്ള വലയമാണ് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ ഇതാണ് ശരാശരി പാത ഇത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ശരാശരി ഫ്ലക്സ് പാതയാണ് അപ്പോൾ ശരാശരി ദൂരം എടുക്കും അതിനാൽ ഇവിടെ മുതൽ മീൻ ഇത് വൃത്താകൃതിയിലുള്ള ഒന്നാണ് ഇതാണ് ശരാശരി ഫ്ലക്സ് അതായത് ഫ്ലക്സ് പാത്ത് ഞാൻ അല്പം മുകളിലേക്ക് നീങ്ങട്ടെ ഇപ്പോൾ ഈ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഈ കോയിൽ ടൊറോയ്ഡൽ റിങ്ങെന്ന് വിളിക്കുന്നതിനു മുകളിൽ വൌൻഡ് ചെയ്തതാണ് ഇനി കറന്റ് യഥാർത്ഥത്തിൽ അതിൽ പ്രവേശിക്കുന്നു ഈ കറന്റ് ഈ റിംഗിലേക്ക് പ്രവേശിക്കുന്നു ഇതിന് N ടേൺ ഉണ്ട് അതിനാൽ എപ്പോഴെങ്കിലും ഇപ്പോൾ ഇവിടെ 1 മുതൽ 90 വരെ കറക്കാനാവില്ലെന്ന് മനസിലാക്കേണ്ടിവരുമ്പോൾ ആദ്യം ലീകെജ് ഫ്ലക്സ് ഭാഗം പരിഹരിക്കപ്പെടണം ഇത് ശരാശരി ഫ്ലക്സ് പാതയാണ് ഇപ്പോൾ ചോദ്യം എന്തെന്നാൽ ഇത് ഒരു കോയിൽ ആണെങ്കിൽ ഒരു കോയിൽ ഉണ്ടെങ്കിൽ കോയിൽ ഇതുപോലെ പൊതിയുക കോയിൽ ഇതുപോലെ പിടിക്കുന്നു ഈ കറണ്ടാണ് പ്രവേശിക്കുന്നത് ഒടുവിൽ കറന്റ് ഇതിലൂടെ പോവുന്നു അതിനാൽ കണ്ടക്ടറെ ഇതുപോലെ പിടിച്ചാൽ ഇത് ശരാശരി ഫ്ലക്സ് പാതയുടെ ദിശയായിരിക്കും ഇതാണ് ഫ്ലക്സ് പാതയുടെ ദിശ ഉദാഹരണത്തിന് ഈ കണ്ടക്ടർ ഇങ്ങനെ പിടിക്കുക ഈ കോയിൽ ഇങ്ങനെ പിടിക്കുക ഇതുപോലെ അപ്പോൾ ഇത് ഫ്ലക്സ് പാതയുടെ ദിശയായിരിക്കും അതിനാൽ ഞാൻ ഇത് ഇതുപോലെയാക്കിയാൽ ഇതാണ് എന്റെ വൈദ്യുതധാരയുടെ ദിശ അത് പിടിക്കുന്നു അപ്പോൾ ഈ തള്ളവിരൽ ഫ്ലക്സ് പാതയുടെ ദിശയായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ കൈ ഇതുപോലെ പിടിക്കുകയാണെങ്കിൽ തള്ളവിരൽ ഫ്ലക്സ് പാതയുടെ ദിശയായിരിക്കും അതിനാൽ ഇതാണ് ശരാശരി ഫ്ലക്സ് പാത്ത് കുറച്ച് ലീക്കേയ്ജുണ്ടാകും ആണ് അതിനാൽ യഥാർത്ഥത്തിൽ ദിശ കൈവിരലിന്റെ ദിശയിലേതുപോലെ ആയിരിക്കും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ I ആണ് ഇത് N ടേണുകളും ഇവിടെ മനസിലാക്കേണ്ടത് ഫ്ലക്സ് പാതയുടെ ദിശ മാത്രമാണ് അതിനാൽ ഏത് കോർ എടുക്കുമെങ്കിലും ഇത് ശരാശരി ഫ്ലക്സ് പാതയാണ് ഇനി നമ്മൾ ശരാശരി ദൂരം അല്ലെങ്കിൽ ശരാശരി ദൈർഘ്യം എന്ന് വിളിക്കുന്നതിനെ എടുക്കും ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഇതിന്റെ കനം എന്തായാലും ശരാശരി പാത എടുക്കുക ഇവിടെ നിന്ന് ശരാശരി പാത കണക്കാക്കാം കാരണം ഏകീകൃത ക്രോസ് സെക്ഷനാണെന്ന് കരുതുന്നതിനാൽ ശരാശരി ഫ്ലക്സ് പാത്ത് പിന്തുടരുക അതിനാൽ ഇതാണ് എന്റെ ശരാശരി ഫ്ലക്സ് പാത്ത് അതിനാൽ ഫ്ലക്സ് ലൈനിന്റെ ദിശ പിന്നീട് ഡിസി സർക്യൂറ്റിലെ വോൾട്ടേജ് കറന്റിന് സമാനമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഏതെല്ലാം അളവുകൾ ആണെന്ന് കാണിക്കുന്നു അതിനാൽ ഇതിനർത്ഥം ആരം R ഉം വൃത്താകൃതിയിലുള്ള ക്രോസ് സെക്ഷന്റെ വ്യാസം d യും ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ കോർ എന്ന് വിളിക്കപ്പെടുന്ന റിങ് എക്സൈറ്റെഡ് ആണ് അത് ഒരു കോയിൽ വൌൻഡ് ചെയ്തതും അതിന് ഞാൻ പറഞ്ഞ കറന്റ് വഹിക്കുന്ന N ടേണുകളും ഉണ്ട് അതിനാൽ കോറിലെ ഫ്ലക്സ് ലൈനുകൾ Fm N I ന്റെ ഒരു വൈദ്യുതധാരയെ ഉൾക്കൊള്ളുന്നു അത് I ആണ് അതിനാൽ ഇവിടെ ടേണുകളുടെ എണ്ണം N ആണ് അതിനാൽ കാന്തിക ശക്തി അല്ലെങ്കിൽ mmf എന്നത് Fm N I ആമ്പിയർ ടേൺ ആണ് I ആമ്പിയർ ആണെങ്കിൽ N ടേണും ആണ് അതിന്റെ യൂണിറ്റിനെ ആമ്പിയർ ടേൺ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കോസെറ്റീവ് കറണ്ടാണ് എന്ന് വിളിക്കുന്നു ചിലപ്പോൾ ഇതിനെ mmf എന്നും വിളിക്കുന്നു അതായത് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് അതിനാൽ Fm യഥാർത്ഥത്തിൽ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സാണ് ചിലപ്പോൾ ഇതിനെ m m f എന്നും വിളിക്കുന്നു സിമ്മെട്രിയിൽ ഈ കോറിലെ H സ്ഥായിയാണ് കാരണം ഇത് ഓരോ ഫ്ലക്സ് ലൈനിനു ചുറ്റുമാണ് ഉള്ളത് നടുവിലേക്കുള്ള ആരം R ആയിട്ടുള്ളതിന്റെ ശരാശരി ഫ്ലക്സ് ലൈൻ അല്ലെങ്കിൽ കാന്തിക ശക്തി അല്ലെങ്കിൽ കാന്തിക തീവ്രത എന്നത് H NI 2 π r ആണ് നേരത്തെ I 2 π r എന്ന് എഴുതുന്നു പക്ഷേ ഇവിടെ N ടേണുകളുണ്ട് അതിനാൽ H NI 2πr ആണ് അതിനാൽ ആംപിയർ ടേൺസ് പെർ മീറ്റർ ആവും ഇവിടെ Fm NI എന്ന് നിർവചിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ പകരമായി ഇത് Fm 2 π R ആമ്പിയർ ടേണ്സ് പെർ മീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു H Fm l ആമ്പിയർ ടേണ്സ് പെർ മീറ്റർ എന്ന് എഴുതാൻ കഴിയും അതായത് l എന്നത് യഥാർത്ഥത്തിൽ ശരാശരി ഫ്ലക്സ് പാതയുടെ ചുറ്റളവ് അതായത് 2 π r ആവും H Fm l അടുത്തത് ശരാശരി ഫ്ലക്സ് സാന്ദ്രതയാണ് അത് നമുക്ക് അറിയാം B μ H ആണ് പക്ഷേ H Fm l ആണ് അതിനാൽ B μ Fm l വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല ഇവയിലേതെങ്കിലും ആണ് ഇതിന്റെ യൂണിറ്റ് ഇനി ഫ്ലക്സ് AB A എന്നത് ക്രോസ് സെക്ഷണൽ ഏരിയയാണ് B എന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് അതിനാൽ A B അതായത് B Fm l അതിനാൽ ∅ Fm എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ P 1 R അതിനെ വെബർ പെർ ആമ്പിയർ ടേണ്സ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ R എന്നത് യഥാർത്ഥത്തിൽ വെബർ പെർ ആമ്പിയർ ടേണ്സാണ് കൂടാതെ P എന്നത് R ന്റെ റെസിപ്രോക്കൽ ആണ് അതിന്റേത് വെബർ മാത്രമായിരിക്കും ഈ യൂണിറ്റ് വെബർ അല്ലെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഈ ഭൌതിക പ്രവേശനത്തിന്റെത് ആമ്പിയർ ടേണ്സ് ആയിരിക്കും അതിനാൽ യഥാർത്ഥത്തിൽ ഡിസി സർക്യൂട്ടിലെ വോൾട്ടേജുമായി Fm താരതമ്യം ചെയ്താൽ ഇവിടെ ഇത് mmf ആണ് ഇനി ∅ യഥാർത്ഥത്തിൽ ഡിസി സർക്യൂട്ടുകളിലെ g 1 R എന്നത് ഇവിടെ വെബർ പെർ ആമ്പിയർ ടേണ്സ് ആയ പെർമിയൻസ് ആണ് ഇതിനർത്ഥം ഞാൻ അതിനെ ഒരു പട്ടിക രൂപത്തിൽ അനലോഗസ് റെസിസ്റ്റൻസ് ഓരോ കാന്തിക സർക്യൂട്ടിലും റീല്ക്ടൻസ് R ആമ്പിയർ ടേണ്സ് പെർ വെബർ അല്ലെങ്കിൽ ഹെൻറി പവർ 2 ആണ് നിലവിലെ I E R അതായത് emf R ഇവിടെ ഫ്ലക്സ് Fm R ന് സമാനമാണ് കാരണം Fm Eക്ക് സമാനമാണ് R റീല്ക്ടൻസ് എന്നത് R റെസിസ്റ്റൻസ് എന്നതിന് സമാനമാണ് ഇതിനെ യഥാർത്ഥത്തിൽ mmf റീല്ക്ടൻസ് എന്ന് വിളിക്കുന്നു ഇവിടെ ഇത് emf റെസിസ്റ്റൻസും ഇവിടെ mmf റീല്ക്ടൻസും നമുക്കറിയാം R rho l A ആണ് റീല്ക്ടൻസ് എന്നത് l Aμ യും അതിനാൽ l A μ 0 μ r ഇതിനെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിന്നും മാഗ്നറ്റിക് സർക്യൂട്ടിൽ നിന്നുമുള്ള അനലോഗി എന്നാണ് വിളിക്കുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട് പരിഹരിക്കുമ്പോൾ സൂപ്പർ പൊസിഷൻ ചെയ്യുന്ന അതേ രീതി പിന്തുടരും ഇവിടെ കറന്റിന് പകരം ∅ വരും ഇവിടെയും മാഗ്നറ്റിക് സർക്യൂട്ട് വരയ്ക്കാനും ഇതുപോലെ പരിഹരിക്കാനും കഴിയും അതിനാൽ കാര്യങ്ങൾ വളരെ ലളിതമാണ് ഒരേയൊരു കാര്യം വിവിധ ആവശ്യങ്ങൾക്കായി ഹാൻഡ് റൂൾ പ്രയോഗിക്കുന്നു എന്നതാണ് അതിനാൽ ധ്രുവീയത കാരണം എന്തിനാണ് ഈ കാന്തിക തുല്യമായ സർക്യൂട്ട് ഇലക്ട്രിക്കൽ പോലെ നിർമ്മിക്കുന്നത് എന്നറിയണം ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് സമാനമായിട്ട് ഏതായിരിക്കുമെന്ന് അറിയണം അതുപോലെ നെഗറ്റീവ് ഏതായിരിക്കുമെന്നും അതിനാൽ ഇപ്പോൾ ഡിസി സർക്യൂട്ടിൽ നിന്നും മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് Fm ആണ് ഇത് ∅ ഇതാണ് R യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഡയഗ്രം കിട്ടുന്നതെന്ന് നോക്കിയാൽ എനിക്ക് ഈ കണ്ടക്ടറിനെ പിടിക്കാൻ കഴിഞ്ഞാൽ തള്ളവിരലിൻറെ ദിശയിലാവും ഫ്ലക്സ് അതിനാൽ ഇതിനർത്ഥം ഇതാണ് എന്റെ ഫ്ലക്സ് ലൈൻ എന്ന് കരുതുക ഇതാണ് എന്റെ ഫ്ലക്സ് അതിനാൽ കറന്റ് ഇലക്ട്രിക് സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഡിസി സർക്യൂട്ടിലെ പോസിറ്റീവ് ടെർമിനലിലേക്ക് നയിക്കുന്നു പോസിറ്റീവ് ടെർമിനൽ എന്നാൽ എടുക്കുന്ന ഏത് വോൾട്ടേജ് സ്രോതസ്സിലേയും വൈദ്യുതി വിട്ട് പോകുന്ന ടെർമിനൽ ആണ് ഇതാണെന്റെ പോസിറ്റീവ് ഇതാണെന്റെ നെഗറ്റീവ് അതിനാൽ ഇത് എന്റെ Fm ആയിരിക്കും Fm N I ആണ് ഇത് l ആണ് അത് ആമ്പിയർ പെർ മീറ്റർ ആണ് ഇതിനർത്ഥം ഏതിന്റെ ദിശയാണ് ഫ്ലക്സ് എടുക്കേണ്ടതെന്ന് കാണണം അതിനാൽ കണ്ടക്ടറിനെ പിടിച്ചാൽ ഫ്ലക്സ് പുറത്തുവരുന്നു ശേഷം റീല്ക്ടൻസ് കാണിക്കുക പിന്നെ സർക്യൂട്ട് ക്ലോസ്ഡ് ആക്കുക അപ്പോൾ ഇതാണ് ഫൈയുടെ ദിശയെ സൂചിപ്പിക്കുന്നത് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ Fm ആണ് അതായത് ∅ Fm റീല്ക്ടൻസ് Fm N I l ആണ് അതിനാൽ ഒരു ദിശയിലേക്ക് പോകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലക്സ് ഇതുപോലെ ലീവ് ചെയ്യും അപ്പോൾ ഇത് പോസിറ്റീവ് ആവും അപ്പോൾ സമാനരീതിയിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും പക്ഷേ മറ്റൊരു വിധത്തിൽ കാണുകയാണെങ്കിൽ ഫ്ലക്സിന്റെ ദിശ കാണാൻ കഴിയുമെങ്കിൽ പോസിറ്റീവ് ഇതായിരിക്കും ഇതായിരിക്കും നെഗറ്റീവ് ഇതാണ് ഫ്ലക്സിന്റെ ദിശ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഈ I ആണ് അത് ഉണ്ടാക്കുന്നത് അതിനാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ട് വളരെ ലളിതമാണ് അതുകൊണ്ടാണ് ഇതിനെ ഡിസി സർക്യൂട്ടിന് സമാനമായി ഈ സർക്യൂട്ട് വരയ്ക്കുന്നത് അതിനാൽ ∅ Fm റീല്ക്ടൻസ് അതിനാൽ ഈ വഴി നമുക്ക് സർക്യൂട്ട് വരയ്ക്കാൻ കഴിയും ഇത്തരത്തിലുള്ള സർക്യൂട്ട് ഉപയോഗിച്ച് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാൻ ഒന്നോ രണ്ടോ പ്രൊബ്ലെംസ് നമുക്ക് കാണാം അതിനാൽ ഇത് മാഗ്നെറ്റിക് സിസ്റ്റത്തിന് സമാനമായ ഒരു ഡിസി സർക്യൂട്ട് ആണ് അടുത്തത് വളരെ എളുപ്പമുള്ളതാണ് അത് ഫ്രിഞ്ചിങ് ഫ്ലക്സ് ആണ് ഈ ഒരു കോർ ഇത് എയർ ഗ്യാപ്പുകൾക്കിടയിലുള്ള മറ്റൊരു കോറാണ് അതിനാൽ യഥാർത്ഥത്തിൽ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലക്സ് സാന്ദ്രത സമാനമല്ല പ്രത്യേക കോണിൽ അത് വ്യത്യസ്തമായ പാതയിലേക്ക് പോകും ഇവിടെ നിന്ന് നേരിട്ട് അതിലേക്ക് പോകുന്നില്ല അത് വ്യത്യസ്തമായ പാതയാണ് സ്വീകരിക്കുന്നത് അതിനർത്ഥം ഒരു മാഗ്നെറ്റിക് കോറിലെ എയർ ഗ്യാപ്പിൽ ഫ്ലക്സ് ഫ്രിഞ്ചുകൾ ഫിഗർ 4 ൽ കാണിച്ചിരിക്കുന്നതുപോലെ അടുത്തുള്ള എയർ ഗ്യാപ്പിന് പുറത്തേക്കാണ് വരുന്നത് അതിനാൽ റീല്ക്ടൻസിനെ ഗ്യാപ്പുകളുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് ഇതിന്റെ ഫലമായി എയർ ഗ്യാപ്പിൽ ഏകീകൃതമല്ലാത്ത ഫ്ലക്സ് സാന്ദ്രത ഉണ്ടാവുന്നു അത് പുറത്തേക്ക് വരും തോറും കുറയുന്നു അതിനാൽ അത്തരം സാഹചര്യത്തിൽ ഫലപ്രദമായ എയർ ഗ്യാപ്പിൻറെ പ്രദേശത്തിൽ വർദ്ധനവ് ഉണ്ടാവുന്നു എയർ ഗ്യാപ്പിൻറെ നീളത്തിനനുസരിച്ച് എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് ഹിസ്റ്റെറിസിസ് ലൂപ്പാണ് ഇവിടെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്താണെന്ന് മനസിലാക്കണം കാരണം മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഇത് കാണും ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പ് അതിനാൽ മാഗ്നറ്റിക്സിൽ ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്നതാണെന്ന് നമ്മൾ കാണും ഇതാണ് ചിത്രം 5 ലുള്ളത് ഇനി പൂർണ്ണമായും ഡീമാഗ്നൈട്ടൈസ് B H 0 ഇതിലൊന്നാണ് എന്ന് കരുതുക സാധാരണയായി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ പൂർണ്ണമായും ഡീമാഗ്നൈട്ടൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് B H 0 ആക്കണം അതിനർത്ഥം I 0 ആയിരിക്കണം H 0 ആണെങ്കിൽ I പൂജ്യം ആവും അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ B H 0 ആക്കുക അല്ലെങ്കിൽ ഒരുപാട് തവണ മാഗ്നെറ്റിസിങ് കറന്റ് ആയ I യെ വിപരീതമാക്കുന്നത് വഴിയും ചെയ്യാം അതേ സമയം ക്രമേണ കറന്റ് പൂജ്യമായി കുറയ്ക്കുന്നു അതിനർത്ഥം നിരവധി തവണ കാന്തിക വൈദ്യുതധാരയുടെ ദിശ മാറ്റുന്നത് കാണേണ്ടതുണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് നിരവധി തവണയാണ് അതേ സമയം ക്രമേണ വൈദ്യുതധാരയെ പൂജ്യമായി കുറയ്ക്കേണ്ടി വരുമ്പോൾ മാത്രമേ B H 0 ലഭിക്കൂ അതുപോലെ B കാന്തിക വലയത്തിന്റെ ശക്തിക്കനുസൃതമായി കൂടുന്നതും ആണ് അപ്പോൾ തത്തുല്യമായ ഫ്ലക്സ് സാന്ദ്രതയും അളക്കേണ്ടതുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും സംഭവിക്കുന്നത് ആ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഡീമാഗ്നെറ്റൈസ് ചെയ്യുന്നു അതിനാൽ അതിനർത്ഥം ഇത് 0 ത്തിൽ നിന്ന് ആരംഭിക്കുന്നു ഇപ്പോൾ എന്തുചെയ്യാൻ കഴിയും എന്നാൽ ഇത് നിർമ്മിച്ചതിന് ശേഷം H വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ H വർദ്ധിപ്പിക്കും അപ്പോൾ ഇത് o g b കർവ് പിന്തുടരും അതിനാൽ ആ സാഹചര്യത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് H വർധിക്കുന്നതിന് അനുസരിച്ച് അതിന് അനുബന്ധമായ ഫ്ലക്സ് ഡെൻസിറ്റി B യും അളക്കുന്നു അതിനർത്ഥം H ന്റെ മൂല്യം ഇപ്പോൾ വർദ്ധിക്കുന്നു ഉത്ഭവത്തിലെ 0 മുതൽ ആരംഭിക്കും കാരണം ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഡീമാഗ്നൈസ് ചെയ്തിട്ടാനുള്ളത് ഇപ്പോൾ H നെ വർദ്ധിപ്പിക്കുന്നു അതായത് കറന്റ് I യെ വർദ്ധിപ്പിക്കുന്നു അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ കറന്റ് വർദ്ധിപ്പിച്ചുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഡൊമെയ്നുകൾ യഥാർത്ഥത്തിൽ വിന്യസിക്കാൻ തുടങ്ങുന്നു തത്ഫലമായുണ്ടാകുന്ന B യും H ഉം തമ്മിലുള്ള ബന്ധം കർവ് o g b കാണിക്കുന്നു അതിനാൽ ഇതാണ് കർവ് o g b ഇതാണ് മധ്യരേഖ ഈ മധ്യം അത് H വരെ എത്തിയിട്ടുണ്ടെന്ന് കരുതുക ഇനി ഇതിലേക്ക് വന്നാൽ ഇപ്പോൾ o y ൽ കാണിച്ചിരിക്കുന്നതുപോലെ H ന്റെ ഒരു നിശ്ചിത മൂല്യത്തിൽ മിക്ക ഡൊമെയ്നുകളും അലൈൻ ആണെന്ന് പറയുന്നു അതിനാൽ സാച്ചുറേഷൻ ഫ്ലക്സ് സാന്ദ്രതയാവും താഴെ ഇത് വർദ്ധിക്കുന്നു അപ്പോൾ കറന്റും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതായത് ഇത് o y എന്ന മൂല്യത്തിലേക്ക് എത്തും അതിനാൽ അതിനുശേഷം Hmax അതായത് I വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാലും ഫ്ലക്സ് സാന്ദ്രത വർദ്ധിക്കുന്നില്ലെന്ന് കണ്ടെത്തും അതിനാൽ ഇതാണ് സാച്ചുറേഷൻറെ മാക്സിമം മൂല്യം ഇതാണ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി കൂടാതെ ഇത് സാചുറേറ്റഡ് ആണ് എന്ന് പറയാൻ കഴിയും ഇതിനപ്പുറം ഫ്ലക്സ് സാന്ദ്രത കൂടില്ലെന്ന് കാണാം മെറ്റീരിയൽ സാച്ചുറേറ്റഡ് ആണെന്ന് പറയാം സാച്ചുറേഷൻ ഫ്ലക്സ് സാന്ദ്രത B r ആണ് അതിനാൽ ഇതാണ് എന്റെ Hmax ഇതാണ് എന്റെ Bmax ഇത് സാച്ചുറേറ്റഡ് ആണ് ഒരു കാര്യം ഉണ്ട് ഈ B r എന്നത് സാച്ചുറേറ്റഡ് എന്ന വായിച്ച കൂടാ ഇത് നമ്മൾ പിന്നീട് കാണും ഇത് യഥാർത്ഥത്തിൽ B റേസിജ്വൽ ആണ് അതിലേക്ക് നമ്മൾ വരും അതിനാൽ അതിനുശേഷം H ൻറെ മൂല്യം കുറയ്ക്കുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക ഫ്ലക്സ് ഡെൻസിറ്റി b c കർവിനെ പിന്തുടരുന്നുവെന്ന് കണ്ടെത്താം ഇനി b c കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതായത് I കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ കർവിലൂടെയാണ് കറന്റ് കുറയ്ക്കുന്നതെന്ന് കരുതുക അതിനാൽ ഇത് ഈ ദിശയിലേക്ക് നീങ്ങുന്നു അപ്പോൾ H 0 ആയിരിക്കുമ്പോൾ മെറ്റീരിയലിൽ ചില ഫ്ലക്സ് ഉണ്ടാകും എന്ന് നമ്മൾ കണ്ടെത്തും ഇതിനെ യഥാർത്ഥത്തിൽ റെസിഡ്യൂവൽ ഫ്ലക്സ് ഉണ്ടാകും ഇതിനെ റെസിജുവൽ ഫ്ലക്സ് എന്ന് വിളിക്കുന്നു അത് പോലെ ഇതിനെ റെസിജുവൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്നും ഇനി വൈദ്യുതധാരയുടെ ദിശ വിപരീതമാക്കുകയാണെങ്കിൽ ഈ വശം നീങ്ങും ഈ പോയിന്റ് o d എന്ന ഒരു ഘട്ടത്തിലേക്ക് വരും അതിനാൽ H ന്റെ വിപരീത ദിശയിലോ കറന്റ് I യുടെ ദിശ വിപരീത ദിശയിലാക്കിയാലോ ആ സമയത്ത് ഈ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ മൂല്യം പതുക്കെ പതുക്കെ 0 ലേക്ക് വരുന്നു ഈ സമയത്ത് B 0 ആണെന്ന് കണ്ടെത്തും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആദ്യം അത് ഇവിടെയാണ് ഇത് വർദ്ധിച്ചു സാച്ചുറേഷൻ വരെ എത്തും അതിനെ സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കും തുടർന്ന് വൈദ്യുതധാരയുടെ ദിശ മാറ്റുകയാണ് അതിനർത്ഥം വിപരീതമാക്കുമ്പോൾ കറന്റ് ഇപ്പോൾ കുറയുന്നു വിപരീതമല്ല കറന്റ് കുറയുന്നു അതിനാൽ ഇവിടെ ഈ ഘട്ടത്തിൽ കുറച്ച് റെസിജ്വൽ ഫ്ലക്സ് ഉണ്ടാകും വീണ്ടും വൈദ്യുതധാരയുടെ ദിശ മാറ്റുമ്പോൾ അത് ഈ ഭാഗത്തേക്ക് വരും അവിടെ H ന്റെ മൂല്യം നെഗറ്റീവ് ആയിരിക്കും ഈ ഘട്ടത്തിലെ ഫ്ലക്സ് ഡെൻസിറ്റി B 0 ആയിരിക്കും അതേ തത്വം ഇവിടെയും സംഭവിക്കും നെഗറ്റീവ് ദിശയിൽ വൈദ്യുതധാരയെ വർദ്ധിപ്പിക്കുന്ന വഴിയിൽ മുന്നോട്ട് പോയാൽ അത് ഇവിടെ എത്തിച്ചേർന്ന അതേ രീതിയിൽ ഒരു സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തിച്ചേരും വീണ്ടും ഈ ദിശയിൽ മുന്നോട്ട് നീങ്ങുന്നു അതായത് ഈ നെഗറ്റീവ് കറന്റുമായി പോകുമ്പോൾ പതുക്കെ പതുക്കെ കുറയുകയും ഈ ഘട്ടത്തിലേക്ക് വരികയും ചെയ്യുന്നു അതിനാൽ ചില റെസിജ്വൽ കാന്തികത ഇവിടെ വീണ്ടും ഉണ്ടാകും ഒടുവിൽ മുമ്പത്തെപ്പോലെ തന്നെ ഈ പോയിന്റിനുശേഷം ഇത് ഇതുപോലെ വരും ഒടുവിൽ ഇതുപോലെയും അങ്ങനെ ഈ രീതിയിൽ B H ലൂപ്പ് പൂർത്തിയാകും അതിനാൽ യഥാർത്ഥത്തിൽ ഇതിനെ ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ B H കർവ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് പോലെ അല്ല അതിനാൽ വിശദീകരിക്കേണ്ടതുണ്ട് എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് അത് ആരംഭിക്കും പക്ഷേ ഒടുവിൽ അത് ഇതുപോലെ നീങ്ങും അതിനാൽ ഞാൻ ഇവിടെ എഴുതിയതിലൂടെയും ഞാൻ പറഞ്ഞതിലൂടെയും പടി പടിയായി പോവുക അതാണ് ഇതിന്റെ പിന്നിലുള്ള തത്വശാസ്ത്രം ഇവിടെ ഞാൻ പറഞ്ഞത് എല്ലാം എഴുതിയിരിക്കുന്നു ഒരു കാര്യം ഉണ്ട് ശേഷിക്കുന്ന കാന്തികതയെ നീക്കം ചെയ്യാൻ ആവശ്യമായ കാന്തികവലയ ബലത്തെ കോയേസിവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ ഈ മൂല്യം ഈ o d ആണ് ഈ ഭാഗമാണ് അത് ഫ്ലക്സ് സാന്ദ്രത 0 ആക്കുന്നതിന് ഈ ഒരു ഘട്ടം ആവശ്യമാണ് ഈ o d ആവശ്യമാണ് അത് H o d ആണ് ഇത് നെഗറ്റീവ് മൂല്യമായിരിക്കും ഇതിനെയാണ് യഥാർത്ഥത്തിൽ കോയേഴ്സിവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് അതിനാൽ ശേഷിക്കുന്ന കാന്തികത നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ കാന്തികവലയ ബലത്തെയാണ് കോയേഴ്സിവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഹിസ്റ്റെറിസിസും പിന്നീട് നമ്മൾ കാണും അവ താപത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും അതിനാൽ താപനില ഉയർച്ച ട്രാൻസ്ഫോർമറിന്റെ റേറ്റിംഗ് കാര്യക്ഷമത എന്നിവ നിർണ്ണയിക്കുന്നതിൽ കോർ ലോസ്സ് പ്രധാനമാണ് മെഷീനുകളും മറ്റ് എസി ഓപ്പറേറ്റഡ് വൈദ്യുതകാന്തിക ഉപകരണങ്ങളിലും നമുക്ക് ഇത് കാണാം അതിനാൽ ഇപ്പോൾ ഹിസ്റ്റെറിസിസ് മൂലമുള്ള വൈദ്യുതി നഷ്ടം യഥാർത്ഥത്തിൽ ഒരു എമ്പേരിക്കൽ ഫോർമുല സമവാക്യം അതുപോലെ എഡ്ഡി കറന്റ് പവർ ലോസ് നൽകിയിരിക്കുന്നു Ke f2 B2 max V വാട്ട് ആണ് ചില മെറ്റീരിയലുകൾക്ക് ഇത് ഉരുത്തിരിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഇവിടെ അതിന്റെ ആവശ്യം ഇല്ല Ke f2 B2 max V വാട്ട് എന്ന് മാത്രം ഓർത്തുവെക്കുക Ke എന്നത് കോറിന്റെ ക്യാരക്റ്ററിസ്റ്റിക് കോൺസ്റ്റന്റ് ആണ് ഇത് വരെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി അടുത്തത് കാന്തികമായി കപ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ആണ് അതായത് രണ്ട് ലൂപ്പുകൾ അവയ്ക്കിടയിലുള്ളതോ ഇല്ലാത്തതോ ആയ ബന്ധത്തിൽ കാന്തികവലയം പരസ്പരം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ആയാലും മതി അവയെ കാന്തികമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം അവ തമ്മിൽ സമ്പർക്കം പുലർത്തുന്നതോ അല്ലാതെയോ രണ്ട് ലൂപ്പുകൾ ഉണ്ടെന്ന് കരുതുക പക്ഷേ സൃഷ്ടിച്ച കാന്തികവലയത്തിലൂടെ അവ പരസ്പരം ബാധിക്കുന്നു അല്ലെങ്കിൽ അവയിലൊന്ന് അങ്ങനെയാണെങ്കിൽ അവ കാന്തികമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു രണ്ട് ലൂപ്പുകൾ ഉണ്ട് ഒരു ലൂപ്പ് ആ സമയത്തെ നിലവിലുള്ള കറന്റ് വഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ലൂപ്പിലേക്ക് ചില ഫ്ലക്സ് ഉണ്ട് അത് മറ്റ് കോയിലിലേക്ക് ബന്ധിപ്പിക്കും അവയെ യഥാർത്ഥത്തിൽ കാന്തികമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം ഇനി മ്യുച്ചൽ ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത് അതിനാൽ ഉദാഹരണത്തിന് ഇത് ഒരു ലളിതമായ സർക്യൂട്ട് ആണെന്ന് കരുതുക ഈ കറന്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള കറന്റ് I യും അവിടെയുള്ള വോൾടേജ് V ആണെന്നും എളുപ്പത്തിൽ മനസിലാക്കാൻ വേണ്ടി എടുക്കാം ഇതാണ് ഫ്ലക്സ് ∅ ഇത് സമയത്തിനനുസരിച് വ്യത്യാസപ്പെടുന്നു ഇതിന് N ടേണുകളും ഉണ്ട് അതിനാൽ ഇതാണ് N ടേണുകളുള്ള ഒരൊറ്റ കോയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈ സാഹചര്യത്തിൽ ഇതാണ് ഫ്ളക്സിന്റെ ദിശ അതുപോലെ ഇതാണ് N ടേണുകൾ അതിനാൽ ഫാരഡെയുടെ നിയമമനുസരിച്ച് കോയിലിൽ പ്രേരിപ്പിക്കപ്പെടുന്ന വോൾട്ടേജ് v N ടേണുകളുടെ എണ്ണത്തിനും കാന്തിക ഫ്ലക്സിന്റെ സമയനിരക്കിലുള്ള മാറ്റത്തിനും ആനുപാതമാണ് അതിനർത്ഥം v N d∅ d t എന്നാണ് ചോദ്യം ഇതാണ് ഈ ∅ ഫ്ലക്സ് നിലവിലെ I നെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ I കുറയുകയാണെങ്കിൽ ∅ യും കുറയും I വർദ്ധിക്കുകയാണെങ്കിൽ ∅ യും കൂടും അതിനാൽ യഥാർത്ഥത്തിൽ ∅ യെ I യുടെ ഒരു ഫങ്ക്ഷന് ആണെന്ന് വിളിക്കാം അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്നാൽ ഈ N d∅dt എന്ന സമവാക്യത്തെ ഒരു ചെയിൻ റൂളായി എഴുതിയാൽ d∅dt യെ d ∅ d i d i d t എന്ന് എഴുതാൻ കഴിയും അതിനാൽ ഈ പദം N d ∅ d i ഇത് യഥാർത്ഥത്തിൽ L ആണ് അതായത് ഇൻഡക്റ്റൻസ് v L d i d t എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിനാൽ L d i d t ഒപ്പം L N L N d ∅ d i എന്നാവും അല്ലെങ്കിൽ പൊതുവേ ചിലപ്പോൾ എനിക്ക് ഇത് L എന്നും എഴുതാം അതിനർത്ഥം ചിലപ്പോൾ L N ∅ i അതായത് Li N ∅ എന്ന് എഴുതാം Li N ∅ എന്നത് പ്രോബ്ലംസുകളിലും നമുക്ക് ആവശ്യമാണ് അതിനാൽ അതിനർത്ഥം v L ഉം L N d ∅ എന്നും ആവും കോയിലിന്റെ ഇൻഡക്റ്റൻസിനെ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കോയിലിന്റെ സെല്ഫ് ഇൻഡക്റ്റൻസ് ആണ് ഇവിടെ ഇതിനടുത്ത് മറ്റൊരു കോയിലും ഇല്ല അടുത്തത് 2 കോയിലുകൾ ആണ് ഇവിടെ രണ്ടാമത്തെ കോയിലിൽ ഒന്നാമത്തെ കോയിലിനെ അനുസൃതമായുള്ള മ്യുച്ചൽ ഇണ്ടക്ടൻസ് M 21 എന്നാണ് വിളിക്കുക ഇപ്പോൾ ഇവിടെ ഒരു കറന്റ് സോഴ്സ് i1 ആണെന്ന് പറഞ്ഞാൽ ഇത് എന്റെ കോയിൽ 1 ഇത് എന്റെ കോയിൽ 2 ഈ ഇൻഡക്റ്റൻസ് L1 ഇത് ഇൻഡക്റ്റൻസ് L2 ആണ് അതിനാൽ മൊത്തം ഫ്ലക്സ് ∅1 ആണ് ∅11 കോയിൽ 1 ലെ ഫ്ലക്സ് ലിങ്കേജുകളും അതിനുപുറമെ ∅1 മറ്റൊരു പാതയിൽ കോയിൽ 2 നേയും ബന്ധിപ്പിക്കും ഇത് യഥാർത്ഥത്തിൽ മ്യൂച്ചൽ ഫ്ലക്സ് ആണ് അതിനാൽ ഈ ∅1∅11∅12 എന്നാവും യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നാൽ ∅11 കോയിൽ 1 നെ ലിങ്ക് ചെയ്യുന്ന മൊത്തം ഫ്ലക്സ് ആണ് എന്നാൽ ∅12 യഥാർത്ഥത്തിൽ കോയിൽ 2 നെ ലിങ്ക് ചെയ്യുന്നതാണ് കോയിൽ ലിങ്കുചെയ്യുന്ന മറ്റൊരു ഭാഗമാണിത് അതിനാൽ ∅11∅12 ഇത് കോയിൽ 1നെ ലിങ്ക് ചെയ്യുന്നു അതെ സമയം ∅12 രണ്ടാമത്തെ കോയിലിനെ മാത്രം ലിങ്ക് ചെയ്യുന്നു അതിനാൽ കോയിൽ 1ലെ ടേണുകളുടെ എണ്ണം N1 ആണെന്നും കോയിൽ 2 ന്റേത് N2 വും ആയ കോയിലിന്റെ മ്യുച്ചൽ ഫ്ലക്സ് എന്നത് ∅1∅11∅12 എന്നാവും മ്യുച്ചൽ ഇണ്ടക്ടൻസ് M21 എന്നാൽ 2 1 എന്നാൽ കോയിൽ 1 നെ സംബന്ധിച്ച് കോയിൽ 2 എന്നാണ് M21 എന്ന് പറയുമ്പോൾ കോയിൽ 1 എക്സൈറ്റഡ് ആണ് അല്ലെങ്കിൽ i 1 ഉണ്ട് അതാണ് കാര്യം മ്യുച്ചൽ ഇണ്ടക്ടൻസ് M21 കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിനാൽ കോയിൽ 1 നെ സംബന്ധിച്ച് കോയിൽ 2 ന്റെ മ്യുച്ചൽ ഇണ്ടക്ടൻസ് M21 എപ്പോഴെങ്കിലും M21 എഴുതുമ്പോൾ ഇതിനെ യഥാർത്ഥത്തിൽ മ്യുച്ചൽ ഇണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നു കോയിൽ 1 നോടനുബന്ധിച്ച് കോയിൽ 2 ലെ മ്യുച്ചൽ ഇണ്ടക്ടൻസ് ഈ രീതിയിൽ വായിക്കും 2 1 എന്ന സഫിക്സിന്റെ അർത്ഥം അതുപോലെയാണ് വായിക്കപ്പെടുന്നത് എല്ലാവർക്കും വളരെയധികം നന്ദി